ഈ പ്രഭാഷണത്തിൽ ഐഒടിയിലെ നെറ്റ്വർക്കിംഗ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ കണക്റ്റിവിറ്റി പ്രശ്നങ്ങൾ എന്തെല്ലാം വെല്ലുവിളികൾ എന്തെല്ലാം ലഭ്യമായ പരിഹാരങ്ങൾ എന്നിവ പരിശോധിച്ചു ഒരു നെറ്റ്വർക്കിംഗ് വീക്ഷണകോണിൽ നിന്ന് ഐഒടി സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്നതിന്റെ വിവിധ വശങ്ങൾ അവിടെയുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നിവ പരിശോധിക്കും അഭിമുഖീകരിക്കുന്ന സാധാരണ നെറ്റ്വർക്കിൽ ഒരു സോഴ്സ് ഒരു ഡാറ്റ സോഴ്സ് അല്ലെങ്കിൽ സെൻസറുകൾ അടങ്ങുന്ന ഒന്നിലധികം ഡാറ്റാ സോഴ്സ് ഡാറ്റ ശേഖരിക്കുകയും ഭൌതിക പരിസ്ഥിതിയുമായി ഇടപഴകുകയും ചെയ്യുന്നു തുടർന്ന് കൂടുതൽ പ്രോസസ്സിംഗിനായി ഡാറ്റ മറ്റൊരിടത്തേക്ക് അയയ്ക്കും പ്രോസസ്സിംഗ് അടിസ്ഥാനമാക്കി ഡാറ്റ വിശകലനം ചെയ്യുന്നു ചില സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാകും ഇത് പ്രവർത്തനക്ഷമമാകുകയോ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഉണ്ടാകണമെന്നില്ല മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ഈ രണ്ട് തരങ്ങളും കണ്ടു ഒരു നെറ്റ്വർക്ക് കാഴ്ചപ്പാടിൽ നെറ്റ്വർക്ക് എങ്ങനെ സജ്ജീകരിക്കാമെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം ഈ IoT ഉപകരണങ്ങൾക്ക് വളരെ കുറഞ്ഞ പ്രോസസ്സിംഗ് പവർ ഉണ്ടായിരിക്കും അവ വലുപ്പത്തിൽ വളരെ ചെറുതാണ് ഊർജ്ജ പരിമിതികൾ സാധാരണഗതിയിൽ ബാറ്ററി പ്രവർത്തിപ്പിക്കുന്നു ചെറിയ വലിപ്പം കാരണം ഉപയോഗിക്കുന്ന ബാറ്ററികളും ചെറുതാണ് ബാറ്ററികളുടെ ഇലക്ട്രോകെമിക്കൽ പരിമിതി കാരണം ഈ ബാറ്ററികൾ വളരെ പരിമിതമായ ആയുസ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അൽഗോരിതം തലത്തിൽ പരിഹാരങ്ങൾ ഉണ്ടായിരിക്കണം അത് വളരെ കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം ചെയ്യും ഒരു നെറ്റ്വർക്ക് കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ചും ഞങ്ങൾക്ക് സിസ്റ്റങ്ങൾ പ്രോട്ടോക്കോളുകൾ പരിഹാരങ്ങൾ അൽഗോരിതങ്ങൾ എന്നിവ ആവശ്യമാണ് അത് വളരെ കുറഞ്ഞ ഊർജ്ജം ചെലവഴിക്കും IoT ഉപകരണങ്ങൾ ഊർജ്ജ പരിമിതിയാണ് അവയ്ക്ക് ചെറിയ വലിപ്പമുണ്ട് വളരെ പരിമിതമായ പ്രോസസ്സിംഗ് പവർ ഉണ്ട് അതിനാൽ IoT ൽ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ ഈ പരിമിതികൾ മനസ്സിൽ വച്ചുകൊണ്ട് അതിനനുസരിച്ച് രൂപകൽപ്പന ചെയ്യണം ഈ നെറ്റ്വർക്കുകൾ സാധാരണയായി വളരെ കുറഞ്ഞ ത്രൂപുട്ടിനെ പിന്തുണയ്ക്കുന്നു അവർക്ക് ഉയർന്ന പാക്കറ്റ് നഷ്ടമുണ്ട് ഈ നെറ്റ്വർക്കുകൾ സാധാരണയായി പ്രവർത്തിക്കുന്നത് വളരെ ശബ്ദായമാനമായ അന്തരീക്ഷത്തിലാണ് ധാരാളം ഇടപെടലുകൾ ഉണ്ട് തത്ഫലമായി പാക്കറ്റ് നഷ്ടവും കൂടുതലാണ് അവർക്ക് ചെറിയ ഉപയോഗപ്രദമായ പേലോഡ് വലുപ്പമുണ്ട് മിക്ക കേസുകളിലും ഈ നെറ്റ്വർക്കുകൾ അവയുടെ ടോപ്പോളജിയിലെ പതിവ് മാറ്റങ്ങളുടെ സ്വഭാവവും പ്രദർശിപ്പിക്കുന്നു ഇത് വളരെ പരിമിതമായ ചലനാത്മക സാഹചര്യമാണ് കൂടാതെ നെറ്റ്വർക്കിംഗ് പരിഹാരങ്ങളുമായി വരുന്നത് ഈ സിസ്റ്റങ്ങളിൽ വലിയ വെല്ലുവിളിയാണ് അതിനാൽ TCPIP അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിക്കൽ ഇന്റർനെറ്റ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ക്ലാസിക്കൽ ഇന്റർനെറ്റ് ഈ നിയന്ത്രണ IoT ഉപകരണങ്ങൾക്കായി ഉദ്ദേശിച്ചുള്ളതല്ല ഒരു സമഗ്ര വീക്ഷണകോണിൽ നിന്ന് വെല്ലുവിളികളെ വ്യത്യസ്ത തരങ്ങളായി തരംതിരിക്കാം പ്രവേശനവുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികളുണ്ട് ഈ നെറ്റ്വർക്കുകളിലൂടെ വൈവിധ്യമാർന്ന ആക്സസ് ഉണ്ട് വൈവിധ്യമാർന്ന ട്രാഫിക് ഒഴുകുന്നു നെറ്റ്വർക്കുകളിൽ പ്രവർത്തിക്കുന്ന ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വെണ്ടർമാർ സവിശേഷതകൾ മാനദണ്ഡങ്ങൾ പ്രോട്ടോക്കോളുകൾ എന്നിവയിൽ വൈവിധ്യമുണ്ട് എല്ലാ അർത്ഥത്തിലും ഇവ നിയന്ത്രണങ്ങളാണ് IoT യെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഒരു മരത്തെക്കുറിച്ച് ചിന്തിക്കാം സ്ലൈഡിൽ നൽകിയിരിക്കുന്ന ഉറവിടത്തിൽ നിന്നാണ് ഈ സാമ്യം എടുത്തത് മരത്തിന് വേരുകൾ ശരീരം ഇലകൾ എന്നിവയുണ്ട് സ്മാർട്ട് ഹെൽത്ത് കെയർ സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ സ്മാർട്ട് സിറ്റി സ്മാർട്ട് എനർജി സ്മാർട്ട് റീട്ടെയിൽ സ്മാർട്ട് ഹോം സ്മാർട്ട് സിറ്റികൾ എന്നിങ്ങനെ വ്യത്യസ്തമായ ഐഒടി ആപ്ലിക്കേഷനുകൾ IoT യുടെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഈ സ്മാർട്ട് കാര്യങ്ങളെല്ലാം ഒരു മരത്തിന്റെ ഇലകൾക്ക് സമാനമാണ് മരത്തിന്റെ ഏറ്റവും താഴെയാണ് ഈ വേരുകൾ ഈ വേരുകൾ ആശയവിനിമയ പ്രോട്ടോക്കോളുകളും ഉപകരണ സാങ്കേതികവിദ്യകളും പോലെയാണ് ഈ പ്രോട്ടോക്കോളുകളും ഉപകരണ സാങ്കേതികവിദ്യകളും മരത്തിന്റെ വേരുകൾ പോലെയാണ് ബ്ലൂടൂത്ത് സിഗ്ബീ ഇസഡ് വേവ് വൈ ഫൈ സെൻസറുകൾ ആക്യുവേറ്ററുകൾ തുടങ്ങിയ സാങ്കേതികവിദ്യകൾ മരത്തിന്റെ വ്യത്യസ്ത വേരുകളാണ് IoT ആപ്ലിക്കേഷനുകൾ കണക്കിലെടുക്കുമ്പോൾ മുകളിൽ സൂചിപ്പിച്ച സാങ്കേതികവിദ്യകൾ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച പ്രോട്ടോക്കോളുകൾ പോലുള്ള വേരുകൾ ഈ പ്രയോഗങ്ങളെ പിന്തുണയ്ക്കുന്ന അനുയോജ്യമായ ഒരു ശരീരം കൊണ്ടുവരികയാണ് ലക്ഷ്യം മരത്തിന്റെ വേരുകളുമായി ബന്ധിപ്പിക്കും ശരീരം അടിസ്ഥാനപരമായി IoT യുടെ വാസ്തു മാതൃകയായ IoT യുടെ വാസ്തുവിദ്യാ റഫറൻസ് മാതൃകയാണ് മൊത്തത്തിൽ ഒരു ഒപ്റ്റിമൈസേഷൻ തരത്തിലുള്ള കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ ചുരുങ്ങിയത് ഒരു കൂട്ടം വേരുകൾ തിരഞ്ഞെടുത്ത് പരമാവധി ഇലകൾ സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള ഒരു ശരീരം നിർദ്ദേശിക്കണമെന്ന് ലക്ഷ്യം പ്രസ്താവിക്കാം ഒപ്റ്റിമൈസേഷൻ ലക്ഷ്യം മൊത്തത്തിലുള്ള ലക്ഷ്യം പോലെ ചിന്തിക്കാം IoT IP അടിസ്ഥാനമാക്കിയുള്ള സ്പെസിഫിക് വെണ്ടർ വാഗ്ദാനം ചെയ്യുന്നു നിർദ്ദിഷ്ട പരിഹാരങ്ങൾ പോലെ തുടരുന്നു അല്ലെങ്കിൽ IETF പ്രോട്ടോക്കോളുകൾ അടിസ്ഥാനമാക്കി IP അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നേരെമറിച്ച് IETF IP അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ IoT പോലുള്ളവയെ പിന്തുണയ്ക്കാൻ വ്യത്യസ്ത സംരംഭങ്ങൾ ഉള്ളിടത്ത് 6LoWPAN ഇത് ലോ പപ്പിലൂടെയുള്ള IPv6 നെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് കുറഞ്ഞ പവർ വയർലെസ് വ്യക്തിഗത ഏരിയ നെറ്റ്വർക്കാണ് 6LoWPAN ന് മുകളിലുള്ള IPv6 അത്തരമൊരു സാങ്കേതികവിദ്യയാണ് അത്തരം ഒരു പ്രോട്ടോക്കോൾ ഒരു നിർദ്ദിഷ്ട 6LOWPAN വർക്കിംഗ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു അതുപോലെ IoT ആവശ്യകതകൾ ഇന്റർനെറ്റിലേക്ക് പൊരുത്തപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന മറ്റ് വർക്കിംഗ് ഗ്രൂപ്പുകളും ഉണ്ട് ROLL അടിസ്ഥാനപരമായി കുറഞ്ഞ പവർ ലോസി നെറ്റ്വർക്കുകളിലൂടെ റൂട്ട് ചെയ്യുന്നു കോആർഇ എന്നത് പരിമിതമായ വിശ്രമ അന്തരീക്ഷമാണ് 3 വ്യത്യസ്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ ഉണ്ട് ഇത് പോലെ ഐപിക്ക് മേൽ ഐഒടിയുടെ പിന്തുണ ലഭിക്കുന്നതിന് നിരവധി വ്യത്യസ്ത സംരംഭങ്ങളുണ്ട് അതായത് നിലവിലുള്ള ഇന്റർനെറ്റ് വിവിധ സെൻസർ സംവിധാനങ്ങൾ പ്രോപ്പീർറ്റി പരിഹാരങ്ങൾ പ്രോപ്പീർറ്റി പ്രോട്ടോക്കോൾ സ്റ്റാക്ക് എന്നിവ ഉപയോഗിച്ചേക്കാം മറുവശത്ത് ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ എന്നിട്ട് ഈ PDA കളും മറ്റ് പലതും സാധാരണയായി നിലവിലുള്ള ഫ്രെയിംവർക്കിൽ ഇന്റർനെറ്റിന്റെ നിലവിലുള്ള TCPIP പ്രോട്ടോക്കോൾ സ്റ്റാക്ക് ഉപയോഗിക്കുന്നു ഇന്റർനെറ്റിന്റെ നിലവിലുള്ള ചട്ടക്കൂടിന് ഈ കുത്തക പരിഹാരങ്ങൾക്ക് അനുയോജ്യമായ ഒരു പരിഹാരം കൊണ്ടുവരേണ്ടതുണ്ട് ഇത് ലാപ്ടോപ്പുകൾ പിഡിഎകൾ മറ്റ് വയർലെസ് ഉപകരണങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നു ഇത് നമ്മൾ സംസാരിക്കുന്നത് സമഗ്രമായ ചട്ടക്കൂടാണ് എന്നാൽ ഈ നോൺ ഐപി അധിഷ്ഠിത പരിഹാരങ്ങളുടെ പോരായ്മ അന്തിമ ഉപയോക്താക്കൾക്കുള്ള പരിമിതമായ വഴക്കമാണ് ഇവ വെണ്ടർ നിർദ്ദിഷ്ട API കളാണ് അതിനാൽ അന്തിമ ഉപയോക്താക്കൾക്ക് പരിമിതമായ വഴക്കം ഉണ്ട് പരസ്പര പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ വെണ്ടർ നിർദ്ദിഷ്ട സെൻസറുകൾ ഉണ്ട് വെണ്ടർ നിർദ്ദിഷ്ട ഗേറ്റ്വേകൾ ഇത് ചില സെൻസർ നോഡുകൾ പോലെയാണെന്ന് നിങ്ങൾക്കറിയാം ചില IoT ഉപകരണങ്ങൾ ഒരു വെണ്ടർ നിർദ്ദിഷ്ട ഭാഷ തിരഞ്ഞെടുക്കുന്നു നമുക്ക് പറയാം ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നു ആരെങ്കിലും ഫ്രഞ്ച് സംസാരിക്കുന്നു ആരെങ്കിലും ഹിന്ദി സംസാരിക്കുന്നു അവർക്ക് എങ്ങനെ പരസ്പരം സംസാരിക്കാൻ കഴിയും പൊതുവായ ഭാഷയില്ല അവയ്ക്കിടയിൽ പരസ്പര പ്രവർത്തനമില്ല ഇത്തരത്തിലുള്ള വൈവിധ്യത്തെ കീഴടക്കാൻ നിങ്ങൾക്ക് ഒരു പൊതു ചട്ടക്കൂട് ഉണ്ടായിരിക്കണം അത് ഈ വ്യത്യസ്ത ഉപകരണങ്ങളെ വ്യത്യസ്ത കുത്തക മാനദണ്ഡങ്ങൾ പിന്തുടരുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യും വൈവിധ്യമാർന്ന ഈ വെല്ലുവിളി എല്ലാവിധത്തിലും കീഴടക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഈ പ്രശ്നമാണ് പരസ്പര പ്രവർത്തനക്ഷമത കാരണം ഇവ സ്കെയിൽ ചെയ്യേണ്ട മോഡലുകളല്ല സ്കേലബിളിറ്റി നിലനിർത്താൻ കഴിയും അവിടെ അത് ഒരു IP അളക്കാവുന്ന പരിഹാരമാണ് ഈ കുത്തക വെണ്ടർ നിർദ്ദിഷ്ട പരിഹാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവ അളക്കാനാവാത്തതാണ് ഞങ്ങൾക്ക് വ്യത്യസ്ത ഐപി അധിഷ്ഠിത പരിഹാരങ്ങളുണ്ട് കൂടാതെ സാധാരണയായി IETF 6LWWAN ROLL CoRE എന്നിവയുടെ വ്യത്യസ്ത സംരംഭങ്ങൾ 3 വ്യത്യസ്തമാണ് IPv6 ഹെഡർ കംപ്രഷൻ എൻക്യാപ്സുലേഷനെക്കുറിച്ച് സംസാരിക്കുന്നു ഇവ നെറ്റ്വർക്ക് ലെയറിൽ നിന്നുള്ള IPv6 പാക്കറ്റുകൾ IEEE 802 4 അടിസ്ഥാനമാക്കിയുള്ള നെറ്റ്വർക്കുകളിലൂടെ കൈമാറാൻ അനുവദിക്കുന്നതിന് IOL അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുതിയ തരം റൂട്ടിംഗ് പ്രോട്ടോക്കോളാണ് ROLL നിയന്ത്രിത RESTful പരിതസ്ഥിതി നെറ്റ്വർക്കുകളിൽ നിന്ന് സേവന തലത്തിലേക്ക് IoT ഉപകരണങ്ങളുടെ സംയോജനം വ്യാപിപ്പിക്കുന്നു ഇത് വളരെ അത്യാവശ്യമാണ് സേവന നില ഒരു പ്രധാന കാര്യമാണ് സാധാരണയായി നെറ്റ്വർക്കുകളെക്കുറിച്ച് IoT യുടെ പശ്ചാത്തലത്തിൽ ഈ നെറ്റ്വർക്കുകളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നു CoRE വളരെ നിർണായകവും IoT കമ്മ്യൂണിറ്റിയിലെ ഒരു ആകർഷണവുമാണ് ഞങ്ങൾക്ക് വ്യത്യസ്ത IoT ഉപകരണങ്ങൾ ഉണ്ട് അവയാണ് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ സെൻസർ പ്രവർത്തനക്ഷമമാണ് സെൻസർ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവ IoT അടിസ്ഥാനമാക്കിയുള്ളതാണ് IoT അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ സെൻസർ പ്രവർത്തനക്ഷമമാണ് വ്യത്യസ്ത സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഇവയിൽ നിന്നാണ് ഈ ഡാറ്റ ശേഖരിക്കുന്നത് ഇവ ശേഖരിച്ച ഡാറ്റ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോലുള്ളവയിലൂടെ കൈമാറും ഇൻറർനെറ്റിലൂടെ ബാക്ക് എൻഡ് വരെ ഡാറ്റ പിൻഭാഗത്ത് സെർവറുകൾ പോലുള്ള എല്ലാത്തരം പ്രോസസ്സറുകളും ഉണ്ടാകും ആധുനിക പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ക്ലൌഡ് ഉൾപ്പെടെയുള്ള സംഭരണ ഉപകരണങ്ങൾ ഉണ്ടാകും സംഭരണ സംസ്കരണത്തിനുള്ള ക്ലൌഡ് അധിഷ്ഠിത സേവനങ്ങൾ ഇതാണ് ശൃംഖലയും അനുബന്ധ പ്രോട്ടോക്കോളുകളും വാസ്തുവിദ്യയും പരിഹാരങ്ങളുടെ മറ്റ് വശങ്ങളും ഞങ്ങൾ ഗണ്യമായി വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഈ പ്രഭാഷണത്തിൽ നെറ്റ്വർക്കിംഗ് വശങ്ങളുടെ മൊത്തത്തിലുള്ള ആശയത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു നിലവിലുള്ള ഇന്റർനെറ്റിൽ ഐഒടിയെ പിന്തുണയ്ക്കുന്നതിന് വ്യത്യസ്ത ഐഇടിഎഫ് സംരംഭങ്ങളുണ്ട് നമുക്ക് പരിമിതമായ RESTful പരിതസ്ഥിതിയായ CoRE നെക്കുറിച്ച് സംസാരിക്കാം REST എന്നത് ഒരു ചുരുക്കപ്പേരാണ് നിയന്ത്രിത IoT ഉപകരണങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളതും IoT പരിതസ്ഥിതികൾക്ക് ഉപയോഗപ്രദവുമായ ആപ്ലിക്കേഷനുകൾക്ക് CoRE ഒരു പ്ലാറ്റ്ഫോം നൽകുന്നു ഈ ചട്ടക്കൂട് സെൻസറുകളും ആക്യുവേറ്റർ ഉറവിടങ്ങളും വെബ് ഉറവിടങ്ങളും കാണുന്നു അടിസ്ഥാന സെൻസറുകൾ നിരീക്ഷിക്കുകയും ആക്യുവേറ്ററുകളുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ആപ്ലിക്കേഷനുകളിൽ ഫ്രെയിംവർക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു CoAP സേവന കണ്ടുപിടിത്തത്തിനുള്ള ഒരു സംവിധാനം ഉൾക്കൊള്ളുന്നു ഈ സേവന കണ്ടെത്തൽ അത് വളരെ രസകരമാക്കുന്നു റിസോഴ്സ് ഡയറക്ടറിയിലും രജിസ്ട്രേഷൻ ഇന്റർഫേസിലും അവരുടെ ഉറവിടങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന മിനി വെബ് സെർവറുകളാണ് CoRE ഉപകരണങ്ങൾ ഒരു നിർദ്ദിഷ്ട ഐഒടി ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സംഭരിക്കുന്ന ഒരു ലോജിക്കൽ നെറ്റ്വർക്ക് നോഡാണ് റിസോഴ്സ് ഡയറക്ടറി ഏതെങ്കിലും ലോജിക്കൽ IoT നോഡിൽ ഒരു കൂട്ടം IoT ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സംഭരിക്കുന്നു മറുവശത്ത് രജിസ്ട്രേഷൻ ഇന്റർഫേസ് REST അടിസ്ഥാനമാക്കിയുള്ള പ്രോട്ടോക്കോളിനെ പിന്തുണയ്ക്കുന്നു നിലവിലുള്ള ഇന്റർനെറ്റിനായുള്ള http പോലുള്ള പ്രോട്ടോക്കോളുകളെ പിന്തുണയ്ക്കുന്ന പ്രാതിനിധ്യ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ആർക്കിടെക്ചറാണ് REST ആർക്കിടെക്ചറിന്റെ പൂർണ്ണ രൂപം IoT യ്ക്ക് REST ന് തുല്യമായ CoAP ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കും IoT ഉപകരണങ്ങൾ കണ്ടെത്തുന്നതിന് IoT ക്ലയന്റ് ലുക്കപ്പ് ഇന്റർഫേസ് ഉപയോഗിക്കുന്നു ഇപ്പോൾ എല്ലാം നല്ല ശൃംഖലയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ സേവന ഗ്യാരന്റികളുടെ ഗുണനിലവാരം വാഗ്ദാനം ചെയ്യാൻ നെറ്റ്വർക്കിന് കഴിയുമോ അതോ സേവനത്തിന്റെ ഗുണനിലവാരത്തിന്റെ ചില സ്വീകാര്യമായ തലങ്ങൾ IoT നെറ്റ്വർക്കിന്റെ സേവനത്തിന്റെ ഗുണനിലവാരം IoT ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്ന വൈവിധ്യമാർന്ന ട്രാഫിക് നിയന്ത്രിക്കുന്നതിലൂടെ IoT ആപ്ലിക്കേഷനുകൾക്ക് വ്യത്യസ്ത ഉപരിതലങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു IoT നെറ്റ്വർക്കുകൾക്കായുള്ള QoS നയങ്ങളിൽ റിസോഴ്സ് ഉപയോഗം ഡാറ്റ സമയക്രമം ഡാറ്റ ലഭ്യത ഡാറ്റ ഡെലിവറി എന്നിവ ഉൾപ്പെടുന്നു QoS ന്റെ പശ്ചാത്തലത്തിലും IoT നെറ്റ്വർക്കുകൾക്കായി QoS ഉറപ്പാക്കുന്നതിലും പ്രധാന പരിഗണനയിലുള്ള 4 വ്യത്യസ്ത ആട്രിബ്യൂട്ടുകൾ ഇവയാണ് റിസോഴ്സ് വിനിയോഗം ആദ്യത്തേതാണ് ഡാറ്റ സ്വീകരണത്തിനും സംപ്രേഷണത്തിനുമുള്ള സംഭരണത്തിന്റെയും ബാൻഡ്വിഡ്ത്തിന്റെയും നിയന്ത്രണം എന്ന ആശയത്തെക്കുറിച്ച് ഇത് സംസാരിക്കുന്നു നെറ്റ്വർക്കുകളുടെ പശ്ചാത്തലത്തിലുള്ള ഉറവിടങ്ങൾ എന്നാൽ സംഭരണം ബാൻഡ്വിഡ്ത്ത് മുതലായവയെയാണ് അർത്ഥമാക്കുന്നത് റിസോഴ്സ് ഉപയോഗത്തിനുള്ള QoS പോളിസികളിൽ റിസോഴ്സ് ലിമിറ്റ് പോളിസി ഉൾപ്പെടുന്നു ഇത് മെസേജ് ബഫറിംഗിന്റെ അളവ് നിയന്ത്രിക്കുന്നു ഇത് മെമ്മറി നിയന്ത്രണ IoT ഉപകരണങ്ങൾക്ക് ഉപയോഗപ്രദമാണ് രണ്ടാമത്തേത് റിസോഴ്സ് ഉപയോഗത്തിനുള്ള QoS നയമാണ് ടൈം ഫിൽട്ടർ പോളിസി ഇത് ഡാറ്റാ സാമ്പിൾ നിരക്ക് നിയന്ത്രിക്കുകയും ബഫർ ഓവർഫ്ലോ ഒഴിവാക്കാൻ ഇന്റർ അറൈവൽ സമയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് മെമ്മറിയുടെയും പ്രോസസ്സിംഗ് പവറിന്റെയും നിയന്ത്രണത്തെക്കുറിച്ച് ഇവ സംസാരിക്കുന്നു സമയബന്ധിതമായ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ഒരു പ്രത്യേക വിവരത്തിന്റെ പുതുമ അളക്കുന്നതാണ് അത് റിസീവർ അറ്റത്ത് ലഭിക്കുമ്പോൾ ഉറവിടത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഡാറ്റ സ്വീകർത്താവിലേക്ക് അയയ്ക്കുന്നു പക്ഷേ അത് സ്വീകർത്താവിൽ ലഭിക്കുമ്പോൾ ആ ഡാറ്റ എത്രത്തോളം പുതുമയുള്ളതാണ് സുരക്ഷാ പ്രാധാന്യമുള്ള തത്സമയ ആവശ്യകതകളുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട പരിഗണനയാണ് ഉദാഹരണത്തിന് ഹൃദയാഘാതം ഉള്ള രോഗിയുടെ ആരോഗ്യ സംരക്ഷണം QoS മാനദണ്ഡം റിസീവർ അവസാനം ലഭിക്കുന്ന ഡാറ്റ അളക്കുന്നു ആ വിവരങ്ങൾ അടങ്ങിയ പാക്കറ്റ് മതിയായ പുതിയതാണോ കൃത്യസമയത്ത് ഡാറ്റ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഈ പ്രയോഗങ്ങളിൽ പലതിലും ഇത് വളരെ പ്രധാനപ്പെട്ട പരിഗണനയാണ് IoT നെറ്റ്വർക്കുകളുടെ ഡാറ്റ സമയബന്ധിത നയങ്ങളിൽ സമയപരിധി നയം ഉൾപ്പെടുന്നു ഡാറ്റയുടെ പരമാവധി ആഗമന സമയം പരമാവധി ഇന്റർ അറൈവൽ സമയം എത്രയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നയ പുനonsപരിശോധനയാണ് രണ്ടാമത്തെ പോളിസി പരിഗണന ലേറ്റൻസി ബജറ്റ് പോളിസി പരിഗണനയാണ് ഡാറ്റാ ട്രാൻസ്മിഷനും സ്രോതസ്സ് അവസാനം മുതൽ റിസീവർ അവസാനം വരെയുള്ള സ്വീകരണവും തമ്മിലുള്ള പരമാവധി സമയ വ്യത്യാസം അതിനാൽ ഡാറ്റ സമയബന്ധിതമായ രണ്ട് വ്യത്യസ്ത പരിഗണനകളാണ് ഇവ അടുത്ത ആട്രിബ്യൂട്ട് ഡാറ്റ ലഭ്യതയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ അയയ്ക്കുന്നയാളോ നിർമ്മാതാവോ സ്വീകർത്താവിനോ ഉപഭോക്താവിനോ നൽകുന്ന സാധുതയുള്ള ഡാറ്റയുടെ അളവാണ് IoT നെറ്റ്വർക്കുകളിലെ ഡാറ്റ ലഭ്യതയ്ക്കായുള്ള QoS നയങ്ങളിൽ ഡ്യൂറബിലിറ്റി പോളിസി ലൈഫ് സ്പാൻ പോളിസി ഹിസ്റ്ററി പോളിസി എന്നിവ ഉൾപ്പെടുന്നു ഈ ഇംഗ്ലീഷ് പദം സൂചിപ്പിക്കുന്നത് പോലെ ഈട് അയച്ചയാൾ കൈമാറിയ ഡാറ്റ സ്ഥിരതയുടെ അളവിന്റെ നിയന്ത്രണമാണ് ഡാറ്റ സ്ഥിരത പ്രധാനമാണ് അതിനർത്ഥം അയച്ചയാൾ ലഭ്യമല്ലാത്തതിനു ശേഷവും ഡാറ്റയുടെ ലഭ്യത റിസീവറിന് ഉറപ്പാക്കുന്നു റിസീവറിലെ ഡാറ്റയുടെ സ്ഥിരത വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂറബിലിറ്റി പോളിസി പരിഗണനയാണ് ട്രാൻസ്മിറ്റ് ചെയ്ത ഡാറ്റ സാധുതയുള്ള കാലയളവിലെ നിയന്ത്രണത്തെക്കുറിച്ച് ലൈഫ്സ്പാൻ പോളിസി സംസാരിക്കുന്നു നെറ്റ്വർക്കിലൂടെ എത്രമാത്രം മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എത്ര സമയം അതിജീവിക്കാൻ പോകുന്നു എത്ര സമയം ജീവിക്കാൻ പോകുന്നു ഇതൊരു ആജീവനാന്ത നയമാണ് ഡാറ്റയ്ക്ക് ലഭ്യമായ മുമ്പത്തെ ഡാറ്റ സന്ദർഭങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതാണ് ചരിത്ര നയം ഡാറ്റയുടെ ചരിത്രത്തിൽ റിസീവറിന് അത്തരം എത്ര സന്ദർഭങ്ങൾ ലഭ്യമാണ് അയയ്ക്കുന്നയാൾ മുതൽ സ്വീകർത്താവ് വരെ വിശ്വസനീയമായ ഡാറ്റയുടെ വിജയകരമായ സ്വീകരണം അളക്കുന്ന അവസാനത്തേതാണ് ഡാറ്റാ ഡെലിവറി ഡാറ്റ വിതരണത്തിനായുള്ള QoS നയങ്ങൾ വിശ്വാസ്യത നയമാണ് ഇത് ഡാറ്റ വിതരണവും ഗതാഗത മുൻഗണനയുമായി ബന്ധപ്പെട്ട വിശ്വാസ്യത നിലയുടെ നിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് അതിന്റെ മുൻഗണനാ നിലവാരത്തിനനുസരിച്ച് ഡാറ്റ കൈമാറാൻ അനുവദിക്കുന്നു ഇതോടെ ഞങ്ങൾ IoT നെറ്റ്വർക്കുകളുടെ ആദ്യ ഭാഗത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു IoT യിലെ നെറ്റ്വർക്കിംഗിന്റെ മറ്റ് വ്യത്യസ്ത വശങ്ങളുമായി നമ്മൾ തുടരും ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് വിശദമായി പരിഗണിക്കേണ്ട മറ്റ് ചില പ്രശ്നങ്ങളുണ്ട് അതാണ് അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്